എല്ലാവർക്കും സുപ്രഭാതം ഊർജ്ജ സംരക്ഷണവും ഉപയോഗശൂന്യമാകാവുന്ന ചൂട് വീണ്ടെടുക്കലും എന്ന ആശയം സംബന്ധിച്ച അടുത്ത പ്രഭാഷണത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ കുറച്ച് പ്രഭാഷണങ്ങളിൽ നിങ്ങൾ ഹീറ്റ് എക്സ്ചേഞ്ചറുകൾ ഹീറ്റ് എക്സ്ചേഞ്ചറുകളുടെ അടിസ്ഥാന പാഠങ്ങൾ വ്യത്യസ്ത തരം ഹീറ്റ് എക്സ്ചേഞ്ചറുകൾ ഹീറ്റ് എക്സ്ചേഞ്ചർ നെറ്റ് വർക്കുകൾ എന്നിവയെക്കുറിച്ച് പഠിച്ചു അതിനാൽ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒരു പ്രത്യേക ഹീറ്റ് എക്സ്ചേഞ്ച് ഉപകരണത്തെ പറ്റിയാണ് ഇതിനെയും ഒരു ഹീറ്റ് എക്സ്ചേഞ്ചർ എന്നും വിളിക്കപ്പെടുന്നു ഇത് ഒരു ചൂടുള്ള സ്ട്രീമിൽ നിന്ന് ഒരു തണുത്ത പ്രവാഹത്തിലേക്കോ ഒരു ചൂടുള്ള ഉപരിതലത്തിൽ നിന്ന് ഒരു തണുത്ത പ്രവാഹത്തിലേക്കോ ചൂട് കൈമാറാൻ സഹായിക്കുന്നു ആ പ്രത്യേക താപ കൈമാറ്റ ഉപകരണത്തിന്റെ പേര് ഹീറ്റ് പൈപ്പ് എന്നാണ് ഞാനത് എഴുതട്ടെ അതിനാൽ ഹീറ്റ് പൈപ്പ് എന്താണ് ഞാൻ നിങ്ങളോട് ഇതിനെക്കുറിച്ച് അപക്വമായ അർത്ഥത്തിൽ പറഞ്ഞാൽ ഒരു ചൂട് പൈപ്പ് യഥാർത്ഥത്തിൽ ഒരു സിലിണ്ടർ ഉപകരണമാണ് അല്ലെങ്കിൽ ഇത് ഒരു പരന്ന സിലിണ്ടർ ഉപകരണമാകാം ഒരു പരന്ന വൃത്താകൃതിയിലുള്ള ക്രോസ് സെക്ഷൻ ആണ് ഞാൻ അർത്ഥമാക്കുന്നത് ഇത് ചൂടിൻറെ വളരെ നല്ല കണ്ടക്ടറാണ് ഇതിന് വളരെ ഉയർന്ന താപ ചാലകതയുണ്ട് അല്ലെങ്കിൽ അതിന്റെ അക്ഷീയ ദിശകളിൽ ഫലപ്രദമായ താപ ചാലകതയുണ്ട് അതിനാൽ ഒരു പൈപ്പ് പോലെ തോന്നിക്കുന്ന എന്തെങ്കിലും ഞാൻ ഈ രീതിയിൽ വരച്ച് ഇതിനെ ഒരു ഹീറ്റ് പൈപ്പ് എന്ന് വിളിക്കുകയാണെങ്കിൽ അക്ഷീയ ദിശയിലുള്ള എഫക്റ്റീവ് ചാലകത K എഫക്റ്റീവ് വളരെ ഉയർന്നതാണെന്ന് നമുക്ക് പറയാം ഇപ്പോൾ ഞാൻ വളരെ ഉയർന്നത് എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥമാക്കുന്നത് അത് പിന്നീട് ചർച്ച ചെയ്യാൻ പോകുന്ന വിവിധ പാരാമീറ്ററുകളെ ആശ്രയിച്ച് 1000 മുതൽ 10000 WmK വരെയാണ് ഇപ്പോൾ ഈ സംഖ്യ ഉയർന്നതാണ് നമുക്ക് അറിയാവുന്ന ഏറ്റവും മികച്ച താപവൈദ്യുത കണ്ടക്ടറുകളിലൊന്നാണ് ചെമ്പ് ചെമ്പിന്റെ താപചാലകത ഏകദേശം 400WmK ആണ് അലുമിനിയം വളരെ നല്ല ഒരു കണ്ടക്ടർ കൂടിയാണ് ശുദ്ധമായ അലുമിനിയത്തിന്റെ താപചാലകത ഏകദേശം 238WmK ആണ് അതിനാൽ ഇതിൽ നിന്ന് നമ്മൾ എന്താണ് അർത്ഥമാക്കുന്നത് അല്ലെങ്കിൽ ഈ ഉയർന്ന താപചാലകത നമുക്ക് എങ്ങനെ ഉപയോഗിക്കാം ഇതിനെക്കുറിച്ച് ചിന്തിക്കുക ഇത് എന്റെ ഹീറ്റ് പൈപ്പാണെങ്കിൽ അതിന്റെ ഒരു അറ്റം ഞാൻ ചൂടായ അന്തരീക്ഷത്തിലേക്ക് വെളിപ്പെടുത്തുന്നു മറുവശത്ത് ഞാൻ ഇവിടെ ഒരു നീല നിറം ഉപയോഗിക്കുന്നു ഇതാണ് ഞാൻ തണുത്ത അന്തരീക്ഷം എന്ന് പറയുന്നത് ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഇവിടെ ചൂടായ ഈ അറ്റത്തെ കുറച്ച് ചൂട് തണുപ്പുള്ള മറ്റേ അറ്റത്തേക്ക് മാറ്റുക എന്നതാണ് അത് ചൂടാക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ ഈ അറ്റത്തുള്ള താപോർജ്ജം ഉപയോഗിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നു അതിനാൽ താപ കൈമാറ്റത്തെക്കുറിച്ചുള്ള നമ്മുടെ അടിസ്ഥാന അറിവിൽ നിന്ന് ഫലപ്രദമായി നമ്മൾ പറയും നമുക്ക് നല്ലൊരു താപചാലകം ആവശ്യമാണെന്ന് ഇപ്പോൾ അത് എത്ര നല്ലതാണ് നമ്മൾക്ക് ചെമ്പ് ഉപയോഗിക്കാം നമ്മൾക്ക് അലുമിനിയം ഉപയോഗിക്കാം എന്ന് നിങ്ങൾ പറയും എന്നാൽ ഞാൻ പറയുന്നത് നമുക്ക് ഒരു ചൂട് പൈപ്പ് ഉപയോഗിക്കാം കാരണം ഇവിടെ ഈ അക്ഷീയ ദിശയിലുള്ള താപചാലകത വളരെ ഉയർന്നതാണ് അതിനാൽ കുറഞ്ഞ താപപ്രതിരോധം ഉള്ള ചൂടുള്ള ഭാഗത്ത് നിന്ന് തണുത്ത ഭാഗത്തേക്ക് നമുക്ക് താപോർജ്ജം വളരെ കാര്യക്ഷമമായി നടത്താനാകും അതിനാൽ സാധാരണക്കാരന്റെ പദങ്ങളിൽ എന്താണ് ഒരു ചൂട് പൈപ്പ് അടുത്ത ചോദ്യം ഈ താപ വിനിമയ ഉപകരണത്തിന് ഇത്രയും ഉയർന്ന താപചാലകത നൽകുന്നത് എന്താണെന്നതാണ് കാരണം സാധാരണയായി ഇത് വളരെ പ്രത്യേകതയുള്ളതും ചെലവേറിയതുമായ ഒരു വസ്തുവായിരിക്കണം നമ്മൾ വജ്രത്തെക്കുറിച്ച് സംസാരിച്ചാലും നമുക്ക് ഇതുപോലെയൊന്നും താപചാലകത ലഭിക്കില്ല വജ്രം ഉപയോഗിച്ചാൽ മൂല്യം ആയിരം ആയിരിക്കാം പക്ഷേ തീർച്ചയായും ഉയർന്ന അളവിലുള്ളതായിരിക്കില്ല അതിനാൽ ചൂട് പൈപ്പുകളെ കാര്യക്ഷമമായ താപചാലകമാക്കുന്നത് എന്താണ് എന്നതാണ് ചോദ്യം അതിനാൽ നമ്മൾ അടുത്തതായി ഉത്തരം നൽകാൻ പോകുന്ന ചോദ്യമാണിത് അതിനായി ഞാൻ ഇപ്പോൾ എന്തുചെയ്യും ഞാൻ ഇവിടെ പ്ലേ ചെയ്യുന്ന സ്ലൈഡിലേക്ക് വേഗത്തിൽ മാറും ഇതൊരു ആനിമേഷനാണ് ഈ ആനിമേഷൻ ഉപയോഗിച്ച് നമുക്ക് ഒരു ചൂട് പൈപ്പിനുള്ളിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് സംസാരിക്കാം അതിനാൽ പുറത്ത് നിന്ന് നിങ്ങൾക്ക് കാണാനാകുന്നതുപോലെ ഈ സാഹചര്യത്തിൽ ഇത് ഒരു വൃത്താകൃതിയിലുള്ള ക്രോസ് സെക്ഷനുള്ള ഒരു സിലിണ്ടറാണെന്ന് കാണിക്കുന്നു ഇത് വൃത്താകൃതിയിലുള്ള ക്രോസ് സെക്ഷനായിരിക്കണമെന്നില്ല പക്ഷേ അത് എന്തായാലും ചൂട് പൈപ്പിന്റെ ഒരു അറ്റത്ത് നിങ്ങൾക്ക് ഈ ചൂട് ഉള്ളതായി കാണാം അതിനാൽ ഞാൻ സംസാരിക്കുന്നത് ആ ചൂടുള്ള അറ്റത്തെക്കുറിച്ചാണ് അതിനാൽ അടിസ്ഥാനപരമായി ഒരു അറ്റം ചൂടാക്കപ്പെടുന്നു മറ്റേ അറ്റം തണുത്ത അന്തരീക്ഷത്തിലേക്ക് തുറക്കുന്നു അല്ലെങ്കിൽ മറ്റേ അറ്റം തണുത്തിരിക്കുന്നു അതിനാൽ ചൂട് പൈപ്പിൽ എന്താണ് അടങ്ങിയിരിക്കുന്നത് ഒന്നാമതായി അത് ഒരു സോളിഡായ വടിയോ പൈപ്പോ അല്ല മറിച്ച് ഇരുവശവും അടച്ച പൊള്ളയായ ട്യൂബാണ് അകഭാഗത്ത് എന്താണ് ഉള്ളത് ആന്തരിക വ്യാസത്തിന് ചുറ്റും നമുക്ക് ഒരു പ്രത്യേക മെറ്റീരിയൽ ഉണ്ട് അതിനെ നമ്മൾ ഒരു തിരി എന്ന് വിളിക്കുന്നു സാധാരണയായി വിക്ക് ഒരു നാരുകളുള്ള വസ്തുവായിരിക്കാം അല്ലെങ്കിൽ അത് ഒരു സിന്റർ ചെയ്ത മെറ്റീരിയലാകാം അത് തോടുകളുടെ രൂപത്തിൽ ആകാം നമ്മൾ അതിനെക്കുറിച്ച് സംസാരിക്കാൻ പോകുന്നു അടുത്തതായി നമ്മൾ കാണാൻ പോകുന്നത് തിരിയുടെ പ്രവർത്തനം ആണ് ഇപ്പോൾ നമ്മൾ നിർമ്മാണത്തിലേക്ക് വീണ്ടും വരുന്നു ഒരു ചൂട് പൈപ്പിനുള്ളിൽ ഉള്ള മൂന്നാമത്തെ കാര്യം കുറച്ച് തുള്ളി ദ്രാവകമാണ് അത് ഇപ്പോൾ വെള്ളമാണെന്ന് നമുക്ക് അനുമാനിക്കാം കാരണം ഇത് സാധാരണയായി ഉപയോഗിക്കുന്നതാണ് കുറഞ്ഞ മർദ്ദത്തിലുള്ള കുറച്ചു തുള്ളികളാണ് ഒന്ന് കൂടി പറയുകയാണെങ്കിൽ മുഴുവൻ ചൂട് പൈപ്പും ചെമ്പ് പോലുള്ള മെറ്റീരിയൽ കൊണ്ട് നിർമ്മിച്ച ഒരു പൊള്ളയായ പൈപ്പാണ് തുടർന്ന് ആന്തരിക വ്യാസത്തിനുള്ളിൽ നിങ്ങൾക്ക് ഒരു തിരി മെറ്റീരിയൽ ഉണ്ട് തുടർന്ന് ഒരു ഉപ അന്തരീക്ഷ മർദ്ദത്തിൽ നിങ്ങൾക്ക് കുറച്ച് തുള്ളി വെള്ളം ഉണ്ട് അതിനാൽ മുഴുവൻ ഹീറ്റ് പൈപ്പും താഴ്ന്ന മർദ്ദത്തിലേക്ക് ഒഴിപ്പിക്കുകയും പിന്നീട് സീൽ ചെയ്യുകയും ചെയ്യുന്നു അതിനാൽ ഒടുവിൽ പുറത്ത് നിന്ന് നിങ്ങൾ കാണുന്നത് ഈ എല്ലാ ഘടകങ്ങളും ഉള്ള ഒരു സീൽ ചെയ്ത ഉപകരണമാണ് ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത് നമ്മൾ ഒരറ്റം ചൂടാക്കുമ്പോൾ നിലവിലുള്ള ഏതാനും തുള്ളി ദ്രാവകം ബാഷ്പീകരിക്കപ്പെടുന്നു ഓർക്കുക നമ്മൾ അതിലെ വായു ഒഴിപ്പിച്ചതാണ് നമ്മൾ വെള്ളം പരിഗണിക്കുകയാണെങ്കിൽ മർദ്ദം കുറച്ചാൽ ജലത്തിന്റെ തിളനില കുറയും ഉദാഹരണത്തിന് നമ്മൾ ഇതിനുള്ളിലെ മർദ്ദം 0 3 താഴ്ത്തുകയാണെങ്കിൽ തിളനില ഏകദേശം 70 ഡിഗ്രി സെന്റിഗ്രേഡായിരിക്കും അതുപോലെ മറ്റ് താഴ്ന്ന മർദ്ദങ്ങൾക്ക് നീരാവി പട്ടികകളിൽ നിന്ന് സാച്ചുറേഷൻ താപനിലയുടെ തിളയ്ക്കുന്ന പോയിന്റ് നമുക്ക് ലഭിക്കും അത് നമുക്കറിയാം അതിനാൽ ബാഷ്പീകരിക്കപ്പെടുമ്പോൾ ഈ കുറച്ച് തുള്ളി വെള്ളം ഒഴുകാൻ തുടങ്ങും പൊള്ളയായ കാമ്പിലൂടെ നീരാവി ഒരു അറ്റത്ത് നിന്ന് മറ്റേ അറ്റത്തേക്ക് ഒഴുകാൻ തുടങ്ങുന്നു അത് തണുത്ത അറ്റത്ത് എത്തുന്നു അവിടെ ജലബാഷ്പം ഘനീഭവിക്കുന്നു ഇത് ചൂട് പുറന്തള്ളുകയും ദ്രാവകമായി ഘനീഭവിക്കുകയും ദ്രാവക വെള്ളം കാപ്പിലറി പ്രവർത്തനം കാരണം തിരിയിലൂടെ ചൂടുള്ള അറ്റത്തേക്ക് മടങ്ങുകയും ചെയ്യും വീണ്ടും ഞാൻ ആവർത്തിക്കുന്നു ഒരു അറ്റത്ത് നമ്മൾ ചൂട് നൽകുന്നു അതിനാൽ ദ്രാവകത്തിന്റെ ഏതാനും തുള്ളി നീരാവിയായി ബാഷ്പീകരിക്കപ്പെടുന്നു തുടർന്ന് പൊള്ളയായ കാമ്പിലൂടെ മറ്റേ അറ്റത്തേക്ക് ഒഴുകുന്നു അവിടെ അത് തണുക്കുകയും അതിനാൽ അത് ഘനീഭവിക്കുകയും ദ്രാവകമായി മാറുകയും ചെയ്യുന്നു ദ്രാവകം തിരിയിലൂടെ ചൂടായ അറ്റത്തേക്ക് കാപ്പിലറി പ്രവർത്തനം കാരണം വീണ്ടും നീങ്ങുന്നു ചിന്തിക്കുക ദീപാവലി സമയത്ത് നിങ്ങൾ ഒരു വിളക്ക് കത്തിക്കുമ്പോൾ നമ്മൾക്ക് ഈ തിരി ഉണ്ട് നമ്മൾ തിരി കത്തിക്കുന്നു അപ്പോൾ ആ വിളക്കിലെ എണ്ണയ്ക്ക് എന്ത് സംഭവിക്കും അത് യഥാർത്ഥത്തിൽ ആ തിരിയുടെ ഒരറ്റത്ത് നിന്ന് മറ്റേ അറ്റത്തേക്ക് കാപ്പിലറി പ്രവർത്തനം മൂലം പോകുന്നു അതിനാൽ ഇത് ഒന്നുതന്നെയാണ് അതിനാലാണ് നമ്മൾ ഈ മെറ്റീരിയലിനെ തിരി എന്ന് വിളിക്കുന്നത് കാരണം ഇത് അതേ പ്രവർത്തനം ചെയ്യുന്നു അതിനാൽ ഈ സ്ലൈഡ് അവസാനിപ്പിക്കുന്നതിനു മുൻപ് ചില പദങ്ങൾ പരിചയപ്പെടാം നമ്മൾ താപം വിതരണം ചെയ്യുന്ന അവസാന ഭാഗം ബാഷ്പീകരണം അല്ലെങ്കിൽ ബാഷ്പീകരണ സെക്ഷൻ എന്നറിയപ്പെടുന്നു കാരണം ദ്രാവകം നീരാവിയായി മാറുന്നു അതുകൊണ്ടാണ് ഇത് ബാഷ്പീകരണ സെക്ഷൻ എന്നറിയപ്പെടുന്നത് അതുപോലെ ദ്രാവകത്തിലേക്ക് ഘനീഭവിക്കുന്ന മറ്റേ അറ്റത്തെ കണ്ടൻസർ സെക്ഷൻ എന്നും നീരാവി തിരിയിലൂടെ ഒഴുകുന്ന സാധാരണയായി വളരെ താഴ്ന്ന താപനിലയിലുള്ള ഭാഗത്തെ അഡിയാബാറ്റിക് സെക്ഷൻ എന്ന് വിളിക്കുന്നു പല കേസുകളിലും അഡിയാബാറ്റിക് ഭാഗം ഇൻസുലേറ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഹീറ്റ് പൈപ്പിന്റെ പുറത്തു നിന്നുള്ള താപനഷ്ടം നമ്മൾക്ക് കുറയ്ക്കാൻ കഴിയുന്നു അതിനാൽ ഇത് ഒരു അർത്ഥത്തിൽ ഒരു ചൂട് പൈപ്പിന്റെ നിർമ്മാണവും അത് പ്രവർത്തിക്കുന്ന രീതിയും ആണ് ഞാൻ ഈ ആനിമേഷനിലൂടെ കാണിക്കാൻ ശ്രമിച്ചത് കൂടാതെ എനിക്ക് ഈ ആനിമേഷൻ തന്ന എന്റെ മുൻ തൊഴിലുടമയായ ഇന്റൽ കോർപ്പറേഷന് ആദരവ് അറിയിക്കാനും ഞാൻ ആഗ്രഹിക്കുന്നു അതിനാൽ നമുക്ക് തിരികെ വരാം ഇപ്പോൾ ഒരു ഹീറ്റ് പൈപ്പ് എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന് നമ്മൾ മനസ്സിലാക്കി ഉള്ളിലെ നിർമാണം ഒരിക്കൽ കൂടി നോക്കൂ ഞാൻ അത് വീണ്ടും വരയ്ക്കാൻ ശ്രമിക്കുന്നു ഇത്തവണ ഒരു ബ്ലാക്ക് ബോക്സ് പോലെയോ പുറത്തുനിന്നുള്ള ഒരു പൈപ്പ് പോലെയോ അല്ല നമുക്ക് ഇവിടെ ഉള്ളിലുള്ള കാര്യങ്ങൾ കൂടി വരയ്ക്കാം അതിനാൽ പുറത്തുനിന്ന് നോക്കുമ്പോൾ ഇത് ഇങ്ങനെയാണ് എന്നാൽ ആന്തരിക വശത്ത് ഇത് എന്റെ വിക്ക് മെറ്റീരിയലാണ് ഞാൻ അത് പച്ച മഷി ഉപയോഗിച്ച് വരയ്ക്കുന്നു ഒരു അറ്റത്ത് ഞാൻ ചൂട് നൽകുന്നു അതിന് നമുക്ക് സാധാരണ നാമം ഉപയോഗിക്കാം നമുക്ക് q എന്ന ചിഹ്നം ഉപയോഗിക്കാം മറുവശത്ത് ഞാൻ ആ ചൂട് പുറത്തെടുക്കുന്നു അതിനാൽ ഇവിടെ ചൂട് ചില മാർഗ്ഗങ്ങളാൽ പുറന്തള്ളപ്പെടുന്നു കാരണം ഈ അറ്റത്തെ നമ്മൾ താഴ്ന്ന താപനിലയിൽ സൂക്ഷിക്കുന്നു അതിനാൽ ഇവിടെ സംഭവിക്കുന്നത് വെള്ളം നീരാവിയിലേക്ക് പരിവർത്തനം ചെയ്യപ്പെടുന്നു തുടർന്ന് ഈ കാമ്പിലൂടെ ഒഴുകുന്നു ഒരു ആക്സിസിമെട്രിക് ജ്യാമിതി അനുമാനിക്കുമ്പോൾ ഇതുപോലെ തന്നെയാണ് മറ്റേ അറ്റത്തും അതിനാൽ നീരാവി ഇങ്ങനെയാണ് സഞ്ചരിക്കുന്നത് തുടർന്ന് മറ്റേ അറ്റത്ത് അത് ഘനീഭവിക്കുന്നിടത്ത് കാപ്പിലറി പ്രവർത്തനം കാരണം തിരിയിലൂടെ അത് തിരികെ വരുന്നു ഇപ്പോൾ വ്യക്തമായോ അതിനാൽ നമ്മൾ പറഞ്ഞതുപോലെ ഈ എൻഡിനെ ബാഷ്പീകരണ സെക്ഷൻ എന്ന് വിളിക്കുന്നു നമ്മൾ അതിനെ E എന്ന് സൂചിപ്പിക്കും ഈ എൻഡിനെ നമ്മൾ കണ്ടൻസർ സെക്ഷൻ എന്ന് വിളിക്കും അതിനെ C എന്ന് സൂചിപ്പിക്കും ഇവിടെ മധ്യഭാഗം അഡിയാബാറ്റിക് ഭാഗമാണ് അതിനാൽ അഡിയാബാറ്റിക് ഭാഗം ഓർമ്മിക്കുക അവിടെ കുറഞ്ഞ താപനഷ്ടം ഉണ്ടാകുന്നു എന്നാണ് ഇത് ഇൻസുലേറ്റ് ചെയ്തതോ അല്ലെങ്കിൽ ഇൻസുലേറ്റ് ചെയ്യപ്പെടാത്തതോ ആകാം ഇത് ഒരു അഡിബാറ്റിക് ഭാഗമാണെന്ന് കാണിക്കാൻ ഞാൻ ഇത് ഇൻസുലേറ്റഡ് ആയി വരച്ചിട്ടുണ്ട് നിങ്ങൾ ഇത് ഇൻസുലേറ്റ് ചെയ്തില്ലെങ്കിൽ പോലും മിക്ക ആപ്ലിക്കേഷനുകളിലും അത് അങ്ങനെയാണ് സാധാരണയായി ഒരു അറ്റത്ത് നിന്ന് മറ്റേ അറ്റത്തേക്ക് കൂടുതൽ താപനഷ്ടം ഉണ്ടാകില്ല കാരണം നീരാവി വളരെ ഉയർന്ന വേഗതയിൽ ആണ് ഒഴുകുന്നത് അതിനാൽ നമുക്ക് ഈ സ്ലൈഡ് വീണ്ടും നോക്കാം ഇത് ഞാൻ സ്കീമാറ്റിക്സിൽ വരച്ചതിന്റെ കൂടുതൽ വിശദമായ അവതരണമാണ് ബാഷ്പീകരണ അറ്റത്ത് ചൂടു നൽകുന്നു കണ്ടൻസർ ഭാഗമായ മറ്റേ അറ്റത്ത് നിന്ന് ചൂട് പുറത്തേക്ക് പോകുന്നു ദ്രാവകം തിരികെ ഒഴുകുന്ന വിക്ക് ഇതാണ് ഈ ഇൻസുലേറ്റിംഗ് ഭാഗത്തെ അഡിയാബാറ്റിക് സെക്ഷൻ എന്ന് വിളിക്കുന്നു ഞാൻ അത് ആവർത്തിക്കാൻ ആഗ്രഹിക്കുന്നു അത് ഒരു പ്രായോഗിക ആപ്ലിക്കേഷനിൽ ഇൻസുലേറ്റ് ചെയ്തിരിക്കാം അല്ലെങ്കിൽ ഇല്ലാതിരിക്കാം അതിനാൽ നമുക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കാം നമ്മൾ വീണ്ടും ഈ സ്ലൈഡിലേക്ക് വന്ന് കൃത്യമായി എന്താണ് സംഭവിക്കുന്നതെന്ന് പരിശോധിക്കും നമുക്ക് ഇവിടെ പേപ്പറിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാം ഒരു ലിക്വിഡ് പമ്പ് ലൂപ്പ് എന്തായിരുന്നു എന്ന് താപകൈമാറ്റ അധ്യായത്തിൽ നമ്മൾ പഠിച്ചിരുന്നു നമ്മൾ പറയുന്നു നമുക്ക് ഒരു ലിക്വിഡ് കൂളിംഗ് വേണം എന്തിനെന്നാൽ എനിക്ക് ഇവിടെ ഒരു ചൂട് സ്രോതസ്സുണ്ട് അത് എനിക്ക് തണുപ്പിക്കേണ്ടതുണ്ട് അതിലൂടെ ദ്രാവകം ഒഴുകുന്നു നമുക്ക് ആദ്യം ഇതിന് ഒരു തലക്കെട്ട് നൽകാം ലിക്വിഡ് പമ്പ്ഡ് ലൂപ്പ് ഇവിടെ നിങ്ങൾക്ക് അകത്തേക്ക് വരുന്ന തണുത്ത ദ്രാവകവും പുറത്തുപോകുന്ന ചൂടുള്ള ദ്രാവകവുമുണ്ട് ഇത് Th ആണ് ഇത് Tc ആണെന്ന് നമുക്ക് പറയാം പിന്നെ എന്താണ് സംഭവിക്കുന്നത് ഇത് ദ്രാവകമാണ് അത് നമുക്ക് വെറുതെ പുറത്തേക്ക് തള്ളിക്കളയാനാവില്ല അതുകൊണ്ടു നമ്മൾ ഇത് ഒരു ലൂപ്പിലൂടെ പോകാൻ അനുവദിക്കും അത് മറ്റൊരു വിഭാഗത്തിലേക്ക് കൊണ്ടുവരുന്നു അവിടെ നമുക്ക് മറ്റൊരു ഹീറ്റ് എക്സ്ചേഞ്ചർ ഉണ്ട് അവിടെ ഈ ചൂടുള്ള ദ്രാവകത്തിൽ നിന്ന് ചൂട് പുറന്തള്ളും അതിനാൽ ഇവിടെ ചൂട് കൂട്ടിച്ചേർക്കലും ഇവിടെ ചൂട് നിരസിക്കലും ഉണ്ട് ചൂടുള്ള ദ്രാവകം വീണ്ടും തണുക്കുകയും തണുത്ത ദ്രാവകമായി പുറത്തുവരികയും ചെയ്യുന്നു എന്നാൽ നിങ്ങൾ ഇത് പമ്പ് ചെയ്ത് തിരികെ അയയ്ക്കണം കാരണം ഇത് അടഞ്ഞ ലൂപ്പ് ആണ് അതിനാൽ പമ്പിലൂടെ തണുത്ത ദ്രാവകം ഹീറ്റർ ഉറവിടത്തിലേക്കോ അല്ലെങ്കിൽ നമ്മൾ തണുപ്പിക്കാൻ ആഗ്രഹിക്കുന്ന താപ സ്രോതസ്സിലേക്കോ അല്ലെങ്കിൽ താപോർജ്ജം നീക്കംചെയ്യാൻ ആഗ്രഹിക്കുന്ന താപ സ്രോതസ്സിലേക്കോ നീങ്ങുന്നു അതിനാൽ ഇത് ഒരു സാധാരണ ദ്രാവക പമ്പ് ലൂപ്പാണ് നമ്മൾ അതിനെ ഒരു ഹീറ്റ് പൈപ്പുമായി താരതമ്യം ചെയ്യും നമുക്ക് ഒരു ചൂടുള്ള ഭാഗമുണ്ടോ അവിടെ നിന്ന് ഒരു തണുത്ത ദ്രാവകം ചൂട് നീക്കം ചെയ്യുന്നതായിട്ടുള്ളത് അതെ നമ്മൾക്ക് അങ്ങനെ ഒരു ഭാഗം ഉണ്ട് അത് ബാഷ്പീകരണ ഭാഗമാണ് സിംഗിൾ ഫേസ് അല്ലെങ്കിൽ 2 ഫേസ് ആകാവുന്ന ചൂടുള്ള ദ്രാവകം യഥാർത്ഥ താപനിലയായി തണുപ്പിക്കുന്ന മറ്റൊരു ഭാഗം നമുക്കുണ്ടോ അതെ നമ്മൾക്ക് അങ്ങനെ ഒരു ഭാഗം ഉണ്ട് അതാണ് കണ്ടൻസർ ഭാഗം നമ്മൾക്ക് ഒരു പമ്പ് ഉണ്ടോ നമ്മൾക്ക് ഒരു പമ്പ് ഇല്ല എന്നാൽ ആ പമ്പിന്റെ പ്രവർത്തനം കാപ്പിലറി പ്രവർത്തനത്തിലൂടെ വിക്ക് മെറ്റീരിയലാണ് ചെയ്യുന്നത് അതിനാൽ ഞാൻ പറയാൻ ശ്രമിക്കുന്നത് ഇവിടെ ചൂട് പൈപ്പ് ഒരു ദ്രാവക 2 ഫേസ് പമ്പ് ലൂപ്പിന് സമാനമാണ് എന്നിരുന്നാലും പമ്പിംഗ് പ്രവർത്തനം തിരിയുടെ സഹായത്തോടെയാണ് നടത്തുന്നത് അതിനാൽ ഞാൻ ഇവിടെ കാണിക്കുന്നത് ചൂട് പൈപ്പുകളെ കുറിച്ച് ആധികാരികമായി പറയാൻ കഴിവുള്ള പ്രൊഫസർ അമീർ ഫാഗറി അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ നിന്നുള്ള കാര്യമാണ് ഒരു സാധാരണ TS ഡയഗ്രാമിൽ ഒരു ചൂട് പൈപ്പിന്റെ പ്രവർത്തനം അദ്ദേഹം ഈ ചിത്രത്തിന്റെ സഹായത്തോടെ കാണിച്ചിരിക്കുന്നു ഈ Ts ഡയഗ്രം ഒരു ലളിതമായ റാങ്കിൻ സൈക്കിൾ പോലെയാണ് അത് നമുക്ക് വളരെ പരിചിതമുള്ളതാണ് അതിനാൽ അദ്ദേഹം അതിനെ ഒരു റാങ്കിൻ സൈക്കിളായി പരിഷ്കരിച്ചു അതിനാൽ 1 മുതൽ 2 വരെ നിങ്ങൾ ദ്രാവകമായി ആരംഭിക്കുന്ന ബാഷ്പീകരണ ഭാഗത്തിൽ എന്താണ് സംഭവിക്കുന്നത് ബാഷ്പീകരണ ഭാഗത്തിന്റെ അവസാനം യഥാർത്ഥത്തിൽ നീരാവി ആണ് അത് പൂരിതമാകാം അല്ലെങ്കിൽ അത് അമിതമായി ചൂടാക്കാനും കഴിയും അതാണ് അദ്ദേഹം പൂരിതമോ അമിത ചൂടോ എന്ന് പറയുന്നത് 2 മുതൽ 3 വരെ കണ്ടൻസർ ആണ് കാരണം നീരാവി അഡിയാബാറ്റിക് ഭാഗത്തിലൂടെ കണ്ടൻസറിലേക്ക് നീങ്ങുന്നു കൂടാതെ 3 മുതൽ 4 വരെ നീരാവി ഘനീഭവിച്ചു ഹീറ്റ് സിങ്കിലേക്ക് ചൂട് പുറപ്പെടുവിക്കുന്നു അല്ലെങ്കിൽ ബാഷ്പം ഘനീഭവിക്കുന്ന കണ്ടൻസർ വിഭാഗം ഇവിടെയാണ് ഒടുവിൽ പമ്പിംഗ് ആക്ഷൻ പോലെ കാപ്പിലറി അതിനെ 4 മുതൽ 1 വരെ തിരികെ കൊണ്ടുവരുന്നു ഇത് സാധാരണയായി ഒരു പമ്പിൽ നമ്മൾ കാണുന്നതിൽ നിന്ന് അല്പം വ്യത്യസ്തമാണ് അവിടെ സാധാരണയായി ഒരു ഐസെൻട്രോപിക് ലൈൻ മുകളിലേക്ക് പോകുന്നതും താപനില ഉയരുന്നതും കാണാം ഒരു തിരിയിൽ അത് സംഭവിക്കുന്നില്ല താപനില ഉയരുകയുമില്ല ഐസെൻട്രോപിക്കും അല്ല എന്നാൽ ഇതാണ് സംഭവിക്കുന്നത് എന്നാൽ പല അർത്ഥത്തിലും ഇത് നമ്മൾ ഇപ്പോൾ ചർച്ച ചെയ്ത ഒരു പമ്പ് ലൂപ്പ് അല്ലെങ്കിൽ ഒരു റാങ്കിൻ സൈക്കിളിനോട് വളരെ സാമ്യമുള്ളതാണ് അടുത്തതായി നമ്മൾ എന്തുചെയ്യും ഞാൻ പറഞ്ഞതുപോലെ ഇതിന് വളരെ ഉയർന്ന താപചാലകതയുണ്ട് വളരെ ഉയർന്ന ഫലപ്രദമായ താപ ചാലകതയുണ്ട് യൂട്യൂബിൽ ലഭ്യമായ ഒരു ചെറിയ വീഡിയോ എന്റെ പക്കലുണ്ട് നിങ്ങൾക്ക് അതിന്റെ ലിങ്കും ഇവിടെ ലഭിക്കും ഞാൻ പ്ലേ ചെയ്യാം അക്ഷീയ താപചാലകതയെ സംബന്ധിച്ചിടത്തോളം ഈ ഹീറ്റ് പൈപ്പ് എത്രത്തോളം ഫലപ്രദമാണെന്നോ എത്രമാത്രം കാര്യക്ഷമമാണെന്നോ കാണിക്കാനുള്ള ഒരു ലളിതമായ പരീക്ഷണമാണ് ഇത് ഹലോ ഹീറ്റ് പൈപ്പ് അടിസ്ഥാനങ്ങളെക്കുറിച്ചുള്ള ഈ പഠനത്തിനായി അഡ്വാൻസ്ഡ് കൂളിംഗ് ടെക്നോളോജിസിൽ ചേർന്നതിന് നന്ദി ഒരു നിശ്ചിത അളവിലുള്ള പ്രവർത്തന ദ്രാവകം നിറച്ച ഒരു ചൂട് പൈപ്പ് വായുവില്ലാതെ അടച്ചിരിക്കുന്നു പ്രവർത്തിക്കാത്ത സമയത്ത് ഹീറ്റ് പൈപ്പിന്റെ ആന്തരിക വ്യാസത്തിൽ കിടക്കുന്ന തിരിഘടനയ്ക്കുള്ളിൽ ദ്രാവകം അടങ്ങിയിരിക്കുന്നു ഒരു ഇലക്ട്രോണിക് ഘടകം പോലെയുള്ള ഒരു താപ സ്രോതസ്സ് താപം സൃഷ്ടിക്കുമ്പോൾ ദ്രാവകം ബാഷ്പീകരിക്കണ ഭാഗം എന്നറിയപ്പെടുന്ന സ്ഥലത്ത് ബാഷ്പീകരിക്കപ്പെടുന്നു താപനില വ്യത്യാസം സൃഷ്ടിക്കുന്ന മർദ്ദം ഉപയോഗിച്ച് ദ്രാവക നീരാവി ചൂട് പൈപ്പിന്റെ മറ്റേ അറ്റത്തേക്ക് വേഗത്തിൽ വ്യാപിക്കുന്നു കണ്ടൻസർ എന്നറിയപ്പെടുന്ന എതിർ അറ്റത്ത് ദ്രാവകം അതിന്റെ അടങ്ങിയിരിക്കുന്ന ചൂട് ഉപേക്ഷിക്കുന്നു അത് ഒരു ബാഹ്യ ഹീറ്റ് സിങ്കിലേക്ക് പുറന്തള്ളപ്പെടുന്നു നീരാവി പിന്നീട് ദ്രാവക രൂപത്തിലേക്ക് മടങ്ങുകയും വിക്ക് ഘടന കാപ്പിലറി ബലം ഉപയോഗിച്ച് ദ്രാവകത്തെ ബാഷ്പീകരണ ഭാഗത്തിലേക്ക് പമ്പ് ചെയ്യുകയും ചെയ്യുന്നു ദ്രാവകവും നീരാവി ഘട്ടങ്ങളും ഉപയോഗിക്കുന്നതിലൂടെ ഹീറ്റ് ട്രാൻസ്ഫർ വളരെ കാര്യക്ഷമമാണ് കാരണം ഇത് ഒരു അടച്ച ലൂപ്പ് സംവിധാനമാണ് നിങ്ങളുടെ താപ മാനേജ്മെന്റ് സിസ്റ്റത്തിൽ വളരെ വിശ്വസനീയമായ ഘടകമായി ഹീറ്റ് പൈപ്പുകൾ തുടർച്ചയായും നിഷ്ക്രിയമായും പ്രവർത്തിക്കുന്നു ഇപ്പോൾ ചൂട് പൈപ്പ് താപചാലകതയുടെ ഒരു ദ്രുത പ്രകടനം കാണും ഈ ഡെമോ ഒരു ചൂട് പൈപ്പിനെതിരായ ഒരു ചെമ്പ് വടിയിലെ താപ കൈമാറ്റ ശേഷി പരിശോധിക്കാനാണ് രണ്ട് സാമ്പിളുകളുടെയും പുറത്ത് താപനില 40oC കവിയുമ്പോൾ പച്ച നിറത്തിൽ നിന്ന് മഞ്ഞയിലേക്ക് മാറുന്ന ഒരു പെയിന്റ് ഉണ്ട് ഇപ്പോൾ ചെമ്പ് വടി യൂണിറ്റിന്റെ ചൂടുള്ള ഭാഗത്ത് വയ്ക്കുക അത് ചൂടാകട്ടെ ചൂടുള്ള വശം 40oC വർണ്ണമാറ്റ താപനിലയേക്കാൾ കൂടുതലാണ് ചെമ്പിന് 400WmK താപചാലകതയുണ്ട് ഇത് മിക്ക ലോഹങ്ങൾക്കും ഉയർന്നതാണ് ചുവടെയുള്ള ഹീറ്ററുകളിൽ നിന്ന് ചെമ്പ് ചൂട് എടുക്കുന്നതിനാൽ നിറം മാറുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും ഇപ്പോൾ ഹീറ്റ് പൈപ്പ് ചൂടുള്ള ഭാഗത്തേക്ക് വയ്ക്കുക മിക്ക ഹീറ്റ് പൈപ്പും ചെമ്പ് വടിയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കുറഞ്ഞ താപനില ഗ്രേഡിയന്റിൽ തൽക്ഷണം സ്ഥിരത കൈവരിക്കുന്നു ഇപ്പോൾ ചെമ്പ് വടിയും ഹീറ്റ് പൈപ്പും തണുത്ത വശത്തേക്ക് നീക്കും ഹീറ്റ് പൈപ്പ് തെർമോഡൈനാമിക് ലൂപ്പിന്റെ ദിശ മാറ്റുകയും പെട്ടെന്ന് തന്നെ താഴ്ന്ന സ്ഥിരതയുള്ള താപനിലയിലെത്തുകയും ചെയ്യുന്നു അതേസമയം ചെമ്പ് വടി സ്ഥിരമായ അവസ്ഥ പുനസ്ഥാപിക്കാൻ സമയം കൂടുതൽ എടുക്കുന്നു ഞങ്ങളോടൊപ്പം ചേർന്നതിന് ACT നിങ്ങൾക്ക് നന്ദി അറിയിക്കുന്നു ചൂട് പൈപ്പുകളുടെ ഗുണങ്ങളെക്കുറിച്ച് എല്ലാവരും അൽപ്പ കാര്യം പഠിച്ചുവെന്ന് പ്രതീക്ഷിക്കുന്നു ആ വീഡിയോയിൽ നമ്മൾ കണ്ടത് ഒരു ചെമ്പ് പൈപ്പും ഒരു ഹീറ്റ് പൈപ്പും ഉണ്ടായിരുന്നു അതിന്റെ ഉപരിതലത്തിൽ താപനില സെൻസിറ്റീവ് ഡൈ ഉണ്ടായിരുന്നു ചെമ്പ് പൈപ്പും ചൂട് പൈപ്പും ചൂടുള്ള ഭാഗത്ത് മുക്കിയപ്പോൾ ചൂട് പൈപ്പ് ചെമ്പുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വളരെ വേഗത്തിൽ ചൂടാകുകയും അതുപോലെ തന്നെ വീണ്ടും തണുത്ത ഭാഗത്ത് തിരികെ വയ്ക്കുമ്പോൾ ഹീറ്റ് പൈപ്പ് വീണ്ടും വളരെ വേഗത്തിൽ തണുക്കുകയും ചെയ്യുന്നു ചെമ്പുമായി താരതമ്യപ്പെടുത്തുമ്പോൾ അതിന്റെ ഫലപ്രദമായ ചാലകത വളരെ കൂടുതലാണെന്ന് ഇത് കാണിക്കുന്നു നിങ്ങൾക്ക് കാണാനാകുന്നതുപോലെ ഒരു ഹീറ്റ് പൈപ്പിന്റെ മറ്റ് ഗുണങ്ങൾ നോക്കിയാൽ അത് ഭാരം കുറഞ്ഞതാണ് വിലകുറഞ്ഞതാണ് ഏറ്റവും പ്രധാനമായി ഇത് നിഷ്ക്രിയമാണ് നമ്മൾ അതിനെ ഒരു പമ്പ് ലൂപ്പുമായി താരതമ്യം ചെയ്യുകയായിരുന്നു നിങ്ങൾക്ക് ഇവിടെ കാണാനാകുന്നതുപോലെ ഇതിൽ പമ്പ് ഇല്ല പകരം വിക്ക് ആ പ്രവർത്തനം നിർവ്വഹിക്കുന്നു അതുപോലെ മെക്കാനിക്കലായ ചലിക്കുന്ന ഭാഗങ്ങളൊന്നുമില്ല അതിനാൽ ഇത് വളരെ വിശ്വസനീയമാണ് ഒരിക്കൽ അത് നിർമ്മിക്കുകയും സീൽ ചെയ്യുകയും ചെയ്താൽ അത് വളരെ വിശ്വസനീയമായി വർഷങ്ങളോളം പ്രവർത്തിക്കുകയും ചെയ്യുന്നു എന്നാൽ ഇത് ഒരു ചൂട് നീക്കംചെയ്യൽ ഉപകരണമല്ല ഇത് ഒരു ഹീറ്റ് എക്സ്ചേഞ്ച് ഉപകരണമാണെന്ന് വീണ്ടും ഓർമ്മിക്കുക കുറഞ്ഞ താപ പ്രതിരോധത്തോടെ പോയിന്റ് A യിൽ നിന്ന് B യിലേക്ക് ചൂട് എത്തിക്കുന്നതിനുള്ള ഒരു മാർഗമാണിത് വേസ്റ്റ് ഹീറ്റ് റിക്കവറിയിൽ നമ്മൾ ചെയ്യാൻ ശ്രമിക്കുന്നത് അതാണ് നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ ചില സ്രോതസ്സുകളിൽ നിന്ന് നമുക്ക് താപോർജ്ജം ലഭ്യമാണ് ഉപയോഗിക്കാത്തപക്ഷം അത് പാഴായിപ്പോകും ആ താപോർജ്ജ സ്രോതസ്സിൽ നിന്ന് സാധ്യമായ ഹീറ്റ് വേർതിരിച്ചെടുക്കാനും അത് നമുക്ക് പ്രയോജനപ്പെടുത്താൻ കഴിയുന്ന മറ്റെവിടെയെങ്കിലും ഉപയോഗിക്കാനും നമ്മൾ ആഗ്രഹിക്കുന്നു അതിനാൽ ഒരു ഹീറ്റ് പൈപ്പ് അത് വളരെ ഫലപ്രദമായി ചെയ്യാൻ നമ്മളെ പ്രാപ്തരാക്കും ഇതാണ് നമ്മൾ കണ്ടത് അടുത്തതായി ഗ്യാസിൽ നിന്ന് ഗ്യാസിലോട്ടു താപ കൈമാറ്റം ചെയ്യുന്ന ഈ ആപ്ലിക്കേഷനുകളിലൊന്ന് നമുക്ക് നോക്കാം ഇതാണ് സ്കീമമാറ്റിക് ആയി കാണിക്കുന്നത് നമുക്ക് അതിനെ 2 അറകളായി ചിന്തിക്കാം ഒരു വശത്ത് നിങ്ങൾക്ക് ചൂടുള്ള മാലിന്യ വാതകം വരുന്നു ഇതിന്റെ മറുവശത്തെ അറയിൽ നിങ്ങൾ ചൂടാക്കാൻ ആഗ്രഹിക്കുന്ന തണുത്ത വായു ഉണ്ട് ഈ അറകൾ നേരിട്ട് കണക്റ്റുചെചെയ്തതാകാം അല്ലെങ്കിൽ അത് ദൂരത്തിൽ ആകാം ചൂടാക്കിയ വായു മുറി ചൂടാക്കലിനോ മറ്റേതെങ്കിലും പ്രക്രിയയ്ക്കോ ഉപയോഗിക്കാം വീണ്ടും പറയുകയാണെങ്കിൽ അത് വായുവായിരിക്കണമെന്നില്ല മറ്റേതെങ്കിലും ദ്രാവകവും ആകാം അതിനാൽ ചൂടുള്ള മാലിന്യ വാതകം ഇവിടെ വരുന്നു നമ്മൾ ചൂടാക്കാൻ ആഗ്രഹിക്കുന്ന തണുത്ത വായു ഇവിടെയുണ്ട് ഇത് ചെയ്യുന്ന രീതി എങ്ങനെയാണെന്ന് വച്ചാൽ നിങ്ങൾക്ക് ഇതുപോലുള്ള ഒരു കൂട്ടം ഹീറ്റ് പൈപ്പുകൾ ഉണ്ട് എന്നതാണ് ഇവയ്ക്കുള്ളിൽ കാണുന്ന ഈ വൃത്താകൃതിയിലുള്ള പൈപ്പുകളെല്ലാം അക്ഷീയ ദിശയിൽ വളരെ ഉയർന്ന ഫലപ്രദമായ താപ ചാലകതയുള്ള ഹീറ്റ് പൈപ്പുകളാണ് അതിനാൽ ഒരറ്റത്ത് നിങ്ങൾ ഇതുപോലുള്ള താപ പൈപ്പുകളുടെ ഒരു ശ്രേണി ഉപയോഗിച്ച് 2 വിഭാഗങ്ങളെ ബന്ധിപ്പിക്കുകയാണെങ്കിൽ എന്താണ് സംഭവിക്കുന്നത് താപോർജ്ജം അല്ലെങ്കിൽ ചൂട് വളരെ ഫലപ്രദമായി ചൂടുള്ള മാലിന്യ വാതകത്തിൽ നിന്ന് ദ്രാവകത്തിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടും ഈ സാഹചര്യത്തിൽ നമ്മൾ ചൂടാക്കാൻ ശ്രമിക്കുന്നത് വായുവാണ് അതിനാൽ ചൂട് വീണ്ടെടുക്കുന്നതിനായി ഹീറ്റ് പൈപ്പുകളുടെ വളരെ സാധാരണവും നന്നായി ഉപയോഗിക്കുന്നതുമായ ഒരു പ്രയോഗമാണിത് 2 ഭാഗങ്ങളെ വേർതിരിക്കുന്ന പ്ലേറ്റിനെ സ്പ്ലിറ്റർ പ്ലേറ്റ് എന്ന് വിളിക്കുന്നു സ്പ്ലിറ്റർ പ്ലേറ്റിന്റെ ഓറിയന്റേഷനിൽ മാറ്റം വരാം അത് ലംബമായി വക്കാൻ കഴിയും ചൂട് പൈപ്പുകൾ തിരശ്ചീനമാണ് ചൂട് പൈപ്പുകളിലേക്ക് പ്ലേറ്റ് ചെരിഞ്ഞേക്കാം അങ്ങനെ ഒരു ചൂട് പൈപ്പിന്റെ പ്രകടനം ചെരിവിനെയും മറ്റ് ജ്യാമിതീയ പാരാമീറ്ററുകളെയും ആശ്രയിച്ചിരിക്കുന്നു അതിനാൽ അടുത്ത പ്രഭാഷണത്തിൽ നമ്മൾ ആരംഭിക്കുന്നത് ഇതാണ് അതുപോലെ തന്നെ ചൂട് വീണ്ടെടുക്കലുമായി ബന്ധപ്പെട്ട ഹീറ്റ് പൈപ്പുകളുടെ മറ്റ് ചില ആപ്ലിക്കേഷനുകളെക്കുറിച്ചും നമ്മൾ സംസാരിക്കും